ശുഭദിനം സുഹൃത്തുക്കളെ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഫലപ്രദമായ ബയോഡേറ്റ എഴുതുന്നതിനോ ഫലപ്രദമായ ബയോഡാറ്റ തയ്യാറാക്കുന്നതിനോ എങ്ങനെ ആസൂത്രണം ചെയ്യാമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ വിവിധ വഴികളെക്കുറിച്ച് സംസാരിച്ചു നിങ്ങൾ ഓർക്കുക റെസ്യുമെയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതുവഴി നിങ്ങളുടെ റെസ്യുമെയിലൂടെ നിങ്ങൾ സ്വയം വിവരിക്കുന്നു പക്ഷേ നിങ്ങൾ അവർക്ക് ഒരു ആത്മകഥ നൽകാൻ പോകുന്നില്ല ഒരു റെസ്യുമെയുടെ വിവിധ ആവശ്യകതകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈർഘ്യത്തെക്കുറിച്ച് ഇതിനകം സംസാരിച്ച ഫലപ്രദമായ ഒരു ബയോഡാറ്റ എങ്ങനെ ഡ്രാഫ്റ്റുചെയ്യാമെന്ന് പറയട്ടെ നിങ്ങൾ നന്നായി ഓർക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ജോലികൾക്കായി അപേക്ഷിക്കുന്ന എൻട്രി ലെവൽ ചെറുപ്പക്കാർക്ക് ഫലപ്രദമായ ഒരു റെസ്യുമെ 1 മുതൽ 1 5 വരെ ടൈപ്പ് ചെയ്ത പേജുകൾ ആയിരിക്കണം നിങ്ങളുടെ റെസ്യുമെ എങ്ങനെ ഫലപ്രദമാക്കാം എങ്ങനെ വികസിപ്പിക്കാം കാരണം ഓരോ അക്ഷരത്തെയും പോലെ ഓരോ റെസ്യുമെ 3 ഭാഗങ്ങളുണ്ടാകും ആദ്യത്തേത് ഒരു ഓപ്പണിംഗ് ആയിരിക്കും തുടർന്ന് ബോഡിയും തുടർന്ന് ക്ലോസും ഇപ്പോൾ ഫലപ്രദമായ ഒരു റെസ്യുമെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻ പ്രഭാഷണത്തിൽ ഞാൻ നിർത്തിയ പോയിന്റ് മനസിലാക്കുകയായിരുന്നു ഒരു റെസ്യുമെ തയ്യാറാക്കുന്നതിന് മുമ്പ് ചെയ്യാൻപാടില്ലാത്തതു എന്തൊക്കെയാണെന്നും അറിയേണ്ടതുണ്ട് ഇപ്പോൾ പലർക്കും അവരുടെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ച് വ്യക്തതയില്ല ഒരു ഒബ്ജക്ടീവ് സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥമെന്താണ് അതിനാൽ ഒബ്ജക്ടീവ് സ്റ്റേറ്റ്മെന്റ് പല സന്ദർഭങ്ങളിലും അവർ സംഗ്രഹം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവർ വസ്തുനിഷ്ഠമെന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ വൈദഗ്ധ്യത്തിന്റെയും കരിയർ താൽപ്പര്യത്തിന്റെയും മേഖലയുടെ ഒന്ന് മുതൽ 3 വരെയുള്ള വാക്യ സംഗ്രഹമായിരിക്കണം നിങ്ങൾക്ക് ചില വാക്യങ്ങളുള്ള പൂർണ്ണ വാചകം എഴുതേണ്ട ആവശ്യമില്ല പക്ഷേ വാക്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ അവ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കാണുക വളരെ നിർദ്ദിഷ്ടവും ഇവിടെയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്കുള്ള കഴിവുകളെക്കുറിച്ച് റിക്രൂട്ടർമാരോട് പറയാൻ പോകുന്നത് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കും നിങ്ങളുടെ ബയോഡാറ്റയിൽ എല്ലാം എഴുതരുത് അഭിമുഖത്തിനായി എന്തെങ്കിലും വിടുക കാരണം ഒരു റെസ്യുമെ ഒരു പാസ്പോർട്ട് മാത്രമാണ് നിങ്ങൾ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ചോദ്യങ്ങളുടെ സ്വഭാവമനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെന്തും വിപുലീകരിക്കാൻ കഴിയില്ല ഒബ്ജക്ടീവ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോകുമ്പോൾ കമ്പനിക്ക് അവർക്കായി എന്തുചെയ്യാൻ കഴിയുമെന്നതിനേക്കാൾ നിങ്ങൾ അവർക്ക് എന്തുചെയ്യാൻ കഴിയും മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഒരു ഉദാഹരണം നൽകി പൊതുവായ പ്രസ്താവനയുടെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത് സാമാന്യവൽക്കരിച്ച പ്രസ്താവനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും എല്ലാ ജോലികളിലും യോജിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അപേക്ഷിക്കുന്ന ഒരു ജോലി നിങ്ങള്ക്ക് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങള്ക്ക് തോന്നിയാൽ എന്ത് സംഭവിക്കും നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ പരാമർശിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടും കാരണം റിക്രൂട്ട് ചെയ്യുന്നവർ പ്രത്യേക കഴിവുകൾ തേടുന്നു എന്റെ അറിവ് വിവിധ മേഖലകളിൽ ഉപയോഗിക്കാൻ എന്നെ അനുവദിക്കുന്ന ഒരു സ്ഥാനം ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ എന്ത് വ്യത്യസ്ത മേഖലകളാണുള്ളത് എന്ന ചോദ്യം അവശേഷിക്കുന്നു അതിനാൽ ലിനക്സിലും മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിലും ജൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം അനുഭവം നേടാൻ കഴിയുന്ന ഒരു സ്ഥാനം വ്യക്തമായി പറയേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റ് നിർദ്ദിഷ്ടമായി പറയാൻ നിങ്ങൾ വളരെ വ്യക്തമായിരിക്കണം ഉദാഹരണത്തിന് ബയോളജിക്കൽ പ്രശ്നങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ എന്റെ പശ്ചാത്തലം പ്രയോഗിക്കാൻ എന്നെ അനുവദിക്കുന്ന ഒരു സ്ഥാനം മാനേജ്മെൻറിൽ ഒരു ജോലിക്കായി അപേക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് വീണ്ടും കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമാകും ആത്യന്തികമായി മാനേജർ പദവിക്ക് അവസരമുള്ള ഒരു മാർക്കറ്റിംഗ് സ്ഥാനം നിങ്ങൾക്ക് പരാമർശിക്കാം കൂടാതെ ശക്തമായ ഉപഭോക്തൃ സമ്പർക്ക വൈദഗ്ദ്ധ്യം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് പറയാം അടുത്തത് വിദ്യാഭ്യാസം മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം വളരെ ആസൂത്രിതമായി പരാമർശിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ചിട്ടയായ രീതിയിൽ പറയുമ്പോൾ ഏറ്റവും പുതിയത് ആദ്യം ഇവിടെ വരണം ആരെങ്കിലും മാസ്റ്ററാണെന്ന് കരുതുക അതിനാൽ അദ്ദേഹം ആദ്യം മാസ്റ്ററാണെന്ന് പരാമർശിക്കുകയും തുടർന്ന് ബി ടെക് മാത്രമുള്ള ഒരാൾ ഗ്രാജുവേയ്ത് ആണെന്നും പറയണം അതിനാൽ അദ്ദേഹത്തിന്റെ ബിരുദദാനത്തിൽ നിന്ന് മാത്രം പരാമർശിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ നിങ്ങളുടെ ഗ്രേഡിന്റെയോ സിജിപിഎയുടെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം അനുവദനീയമായതോ നിങ്ങളുടെ മാർക്ക് ഫയലിൽ എന്തെങ്കിലുമോ ദയവായി പരാമർശിക്കുക നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സിജിപിഎ പിന്തുടരുകയാണെങ്കിൽ ദയവായി സിജിപിഎ പരാമർശിക്കുക അതിൽ ശതമാനം മാത്രം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ശതമാനം മാത്രം പരാമർശിക്കുക മറ്റ് സ്ഥാനാർത്ഥികളേക്കാൾ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുനിൽക്കാൻ പോകുന്നു അപ്പോൾ മാത്രമേ നിങ്ങളുടെ റെസ്യുമെ പരിഗണിക്കൂ ഫ്രഞ്ച് ഭാഷയിൽ ജർമ്മൻ ഭാഷയിലുള്ള ഒരു കോഴ്സ് ബിരുദദാനത്തിൽ പഠിച്ച ഒരാൾ അതിനാൽ റിക്രൂട്ട് ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്ന ഒരു അധിക യോഗ്യതയാണിത് ഒരു വ്യക്തിക്ക് തന്റെ അച്ചടക്കത്തിൽ നിന്ന് കൂടുതൽ അറിയാമെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷകൾ ഇംഗ്ലീഷ് ഫലപ്രദമായി സംസാരിക്കുക ബിസിനസ്സ് നിയമം അറിയുക ധാർമ്മികതയെക്കുറിച്ച് ഒരു കോഴ്സ് എന്നിവയിൽ അദ്ദേഹത്തിന് ചില കഴിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളെ വേറിട്ടു നിർത്താൻ പോകുന്നു എന്നാൽ ഇവിടെ നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും പരാമർശിക്കപ്പെടാതിരിക്കാൻ ഒരു ജാഗ്രത പാലിക്കുക നിങ്ങൾ കൂടാതെ എടുത്ത കോഴ്സുകൾ ദയവായി ഉൾപ്പെടുത്തുക അതിനാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കാണുന്നതുപോലെ അവർ കോഴ്സ് ശീർഷകത്തെ പരാമർശിക്കുന്നു പേരല്ല നിങ്ങൾ hs 0 0 1 എന്ന് പരാമർശിക്കുകയും കോഴ്സ് ശീർഷകം ഇപ്പോൾ പരാമർശിക്കുകയും ചെയ്യുന്നില്ലെന്ന് കരുതുക റിക്രൂട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്താണ് ഇത് hs 0 0 1 അല്ലെങ്കിൽ 0 0 2 അതിനാൽ കോഴ്സിന്റെ പേര് പ്രത്യേകം പരാമർശിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ ദയവായി പരാമർശിക്കുക കാരണം ഇത് നിങ്ങളെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു തൊഴിൽ പരിചയം തീർച്ചയായും ഒരു എൻട്രി ലെവൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ പരിചയം ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾക്ക് 2 മാസത്തേക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കാം പ്രാക്ടീസ് സ്കൂൾ അനുഭവം ഉണ്ടായിരിക്കാം ചില ഓർഗനൈസേഷനുകളിൽ ഒരു പ്രോജക്റ്റായി ശേഖരിച്ചേക്കാവുന്ന അനുഭവപരിചയമുണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ശേഷി വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാനങ്ങൾ ഉൾപ്പെടുത്തണം അത് നിങ്ങളുടെ തൊഴിൽ പരിചയം ഏറ്റവും പ്രസക്തമായ രീതിയിൽ വിവരിക്കുകയും ഉന്നിപ്പറയുകയും ചെയ്യുന്നതിലൂടെ സൃഷ്ടിപരമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ നിങ്ങൾ ആക്ഷൻ ക്രിയകളുടെ സഹായത്തോടെയാണ് എഴുതുന്നതെന്ന് ദയവായി കാണുക അല്ലെങ്കിൽ ആക്ഷൻ വാക്കുകൾ എനിക്ക് ലഭിച്ചുവെന്ന് പറയുന്നു എനിക്ക് പറയാനുണ്ടെങ്കിൽ ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ദുർബലമായ വാക്കുകളാണ് അതിനാൽ സഹായത്തിന്റെ കാര്യത്തിൽ സഹായമുള്ള ആരെയെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നല്ലതാണെന്ന് പറയുന്നു ഇത് ചില വാക്കുകളാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു നിങ്ങൾക്ക് ഒരു ബയോഡാറ്റ ഡ്രാഫ്റ്റുചെയ്യുമ്പോൾ സൂപ്പർവൈസുചെയ്തത് ഏകോപിപ്പിച്ചതായി പറയാൻ കഴിയും ഇവ ആക്ഷൻ ശൈലികൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള പ്രവർത്തന പദങ്ങളാണ് പ്രവർത്തന ശൈലി ഒരു ജോലിയ്ക്കായി അപേക്ഷിക്കുന്ന ഒരു എൻട്രി ലെവൽ വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങൾക്ക് കൂടുതൽ പറയാനില്ല അതിനാൽ ഈ കാര്യങ്ങൾ ഉദാഹരണത്തിന് കോഗ്നിസൻസ് 2017 ൽ ഒരു സംവാദം സംഘടിപ്പിച്ചു വോളിബോളിൽ കോളേജ് ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നടത്തി ഇപ്പോൾ ഇതെല്ലാം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു തൊഴിലുടമകൾക്ക് ഒരു വ്യക്തിയെ മാത്രം ആവശ്യമില്ല പക്ഷേ ചില ആട്രിബ്യൂട്ടുകളുള്ള ഒരു വ്യക്തിയെ അവർ ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവരെ മറികടക്കാൻ സഹായിക്കും അതിനാൽ ആ ഇന്റേൺഷിപ്പ് പരാമർശിക്കേണ്ടതുണ്ട് പക്ഷേ അത് ഒരു യഥാർത്ഥ അനുഭവം ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിക്കുക കാരണം നിങ്ങൾ ഇവിടെ പരാമർശിക്കുന്നതെന്തും എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ അഭിമുഖത്തിന്റെ സമയത്ത് അന്വേഷിക്കേണ്ടതുണ്ട് എന്റെ പ്രിയ സുഹൃത്തേ അതിനാൽ നിങ്ങൾ വളരെ പ്രത്യേകമായിരിക്കണം ഇവിടെ സ്ഥാനാർത്ഥി ഒരു ആശുപത്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തുവെന്ന് പറയുക അതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു ഹോസ്പിറ്റാലിറ്റി ഇന്റേണിനെ പരാമർശിച്ചേക്കാം എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായ തീയതികളും നിങ്ങൾ അത് ചെയ്ത സ്ഥലവും ദയവായി പരാമർശിക്കുക ഇപ്പോൾ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കുമ്പോൾ സമാന്തരതയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിരിക്കണം ഞങ്ങളുടെ നിരവധി പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചു ഇപ്പോൾ സമാന്തരത എന്നതുകൊണ്ട് ഞങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ബയോഡാറ്റയിൽ അറിയാം നിങ്ങൾക്ക് വാക്യങ്ങൾ മാത്രം എഴുതാൻ കഴിയില്ല നിങ്ങൾ വാക്യങ്ങൾ എഴുതുകയാണെങ്കിൽ വാക്യങ്ങൾ ദൈർഘ്യമേറിയതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ അടുക്കാൻ പോകുന്നു പ്രവർത്തന പദങ്ങൾ ഉപയോഗിച്ച് അവയെ ചെറുതാക്കാൻ പോകുന്നു ആസൂത്രണ ഉൽപാദന തയ്യാറെടുപ്പിനും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും നിങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ മേൽനോട്ടം എന്ന പദം വീണ്ടും കണ്ടെത്തും നിങ്ങൾ എന്തെങ്കിലും പരാമർശിക്കാൻ പോകുകയാണെങ്കിൽ ഒരിടത്തും നിങ്ങൾ ഒരു യൂണിറ്റായി എന്തെങ്കിലും പരാമർശിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന മറ്റ് വാക്യവും അത് ഒരു പൂർണ്ണ വാക്യവുമാണെങ്കിൽ ഒരു വാചകം ആരംഭിക്കുക എന്തെങ്കിലും അത് സമാന്തരതയുമായി പൊരുത്തപ്പെടില്ല അതിനാൽ സമാന്തരവാദം നിങ്ങൾ ക്രിയകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രിയകൾ ഉപയോഗിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ പരിശീലനത്തിനും വികസനത്തിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ആസൂത്രണത്തിന് മേൽനോട്ടം വഹിക്കുകയും ക്രിയാത്മകമായി പ്രകടിപ്പിച്ച മേൽനോട്ടത്തിലുള്ള ഏകോപനം സൃഷ്ടിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ ഇവയിലെല്ലാം ഇവ സമാന്തരതയുടെ ഉദാഹരണങ്ങളാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾ ഒരു ബയോഡേറ്റ എഴുതാൻ പോകുമ്പോഴും ഇത് പരീക്ഷിക്കാം ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ നിങ്ങൾക്ക് സ്വയം തിരക്കിലാകാനോ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അവസരങ്ങൾ ലഭിച്ചേക്കാം ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലായ്പ്പോഴും പണം നൽകില്ലായിരിക്കാം പ്രത്യേക പരിചയസമ്പന്നരായ ആളുകൾക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ ഒരു എൻട്രി ലെവൽ വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് ചില അവസരങ്ങൾ ലഭിക്കുന്നു കൂടാതെ പല ഓർഗനൈസേഷനുകളിലും പല സ്ഥാപനങ്ങളിലും ഇത് കാണപ്പെടുന്നു 100 ശതമാനം വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ ശരിയായ വളർച്ച ഉണ്ടാക്കുന്നതിനോ വേണ്ടി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു നിങ്ങൾ സന്നദ്ധപ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ അവർ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് ചില പ്രോജക്റ്റുകളിൽ നിങ്ങൾ ഒരു പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ചില അവാർഡുകൾ ലഭിക്കുന്ന സമയങ്ങളുമുണ്ട് അതിനാൽ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ച അവസരമായി മാറുന്നതിന് ഇവ നിങ്ങളുടെ ബയോഡാറ്റയിൽ പരാമർശിക്കേണ്ടതുണ്ട് ചില വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പുകളിൽ മറ്റ് ചില രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും ലഭിക്കുന്നു അഭിമുഖത്തിന്റെ സമയത്ത് നിങ്ങളുടെ ഭാവി തൊഴിലുടമയുമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന പ്രസക്തമായ പ്രവർത്തനങ്ങളും ബഹുമതികളും ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തും നിങ്ങൾ ഇവ പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഈ മേഖലകളിൽ നിന്നുള്ളതായിരിക്കും മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ സംസാരിച്ചതുപോലെ നിങ്ങൾക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നന്നായി സഹായിക്കും അതിനാൽ നിങ്ങളെ അദ്വിതീയമാക്കുന്ന ആ കഴിവുകൾ ഉൾപ്പെടുത്തുക അത് നിങ്ങളെ വേറിട്ടു നിർത്തുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് 2 വിദേശ ഭാഷകൾ ജർമ്മൻ ഫ്രഞ്ച് എന്നിവ അറിയാം സ്വാഭാവികമായും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രം ഒതുങ്ങിനിൽക്കുന്നവരേക്കാൾ ഒരു മൾട്ടിനാഷണൽ ഓർഗനൈസേഷന്റെ സാധ്യതകൾ മികച്ചതായിരിക്കും നിങ്ങൾക്ക് സാമൂഹിക സേവനത്തിന്റെ പരിചയവുമുണ്ടെന്ന് കരുതുക എൻഎസ്എസ് പ്രവർത്തനങ്ങളുടെ അനുഭവം ക്ഷേമത്തെക്കുറിച്ചും ചിന്തിക്കുന്നു കാരണം പല ഓർഗനൈസേഷനുകളിലും അവർക്ക് ചില ക്ഷേമ പ്രവർത്തന വിഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അവർക്ക് യഥാർത്ഥത്തിൽ ക്ഷേമത്തിന്റെ വാക്യമുണ്ട് പ്രത്യേക കഴിവുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവസരം ലഭിക്കാത്തത് ഒരു പ്രത്യേക പ്രോഗ്രാം സി പ്ലസ് നൂതന കമ്പ്യൂട്ടറുകളിൽ കൂടുതൽ ഒറാക്കിൾ എന്നിവ അറിയാമെങ്കിൽ ദയവായി വ്യക്തമാക്കുക അതിനാൽ നിങ്ങൾ പേരിനാൽ പരാമർശിക്കേണ്ടതുണ്ട് കാരണം മറ്റുള്ളവരെക്കാൾ മികച്ചതായിരിക്കാൻ അവ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി പരാമർശിക്കുക കോഴ്സിന്റെ ദൈർഘ്യം എന്താണ് അല്ലെങ്കിൽ ആ കോഴ്സിന്റെ തീയതികൾ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ഏതെങ്കിലും സേവനത്തെക്കുറിച്ചും പരാമർശിക്കേണ്ടതുണ്ട് റഫറൻസുകളുടെ കാര്യം വരുമ്പോൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ റഫറിമാരുടെ പേര് പരാമർശിക്കേണ്ടതില്ല ആവശ്യപ്പെടുന്നതുവരെ ആവശ്യപ്പെടുന്നതുവരെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും റഫറൻസുകൾ ലഭ്യമാണ് എന്നാൽ ചില ഓർഗനൈസേഷനുകൾ നിങ്ങൾ റഫറിമാരെ പരാമർശിക്കുന്നു അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ അവർ അത് നിർബന്ധമാക്കും അല്ലെങ്കിൽ അവർ ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കാം അത് നിങ്ങൾ പ്രൊഫഷണൽ റഫറൻസുകളെയാണ് പരാമർശിക്കുന്നത് അല്ലാതെ ആളുകളുടെ റഫറൻസുകളല്ല പ്രൊഫഷണൽ റഫറൻസുകൾ പറയുന്നത് നിങ്ങളുടെ പ്രൊഫസർ പ്രോജക്ടിന്റെ ചുമതല നിങ്ങളുടെ സീനിയർ നിങ്ങൾ ഒരു പരിശീലനം നടത്തിയത് അതിനാൽ അവർക്ക് മികച്ച ഇൻപുട്ടുകൾ നൽകാൻ കഴിയും അതിനാൽ നിങ്ങൾ പരിചയസമ്പന്നനാണെങ്കിൽ ആളുകളുടെ റഫറൻസുകളേക്കാൾ പ്രൊഫഷണൽ റഫറൻസുകൾ പരാമർശിക്കുക അതിനാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് മികച്ച ഇൻപുട്ട് നൽകാൻ കഴിയും അതിനാൽ റഫറിമാരെ പരാമർശിക്കുക പക്ഷേ റഫറിമാരെ പരാമർശിക്കുമ്പോൾ നിങ്ങൾ അവരെ പരാമർശിക്കുമ്പോൾ കൃത്യമായ വിശദാംശങ്ങൾ നൽകുന്നത് ദയവായി ശ്രദ്ധിക്കുക ഏത് സമയത്തും ഈ റഫറിമാരെ ബന്ധപ്പെടാൻ കഴിയുന്നതിനാൽ അവരുടെ പൂർണ്ണ വിലാസം ഫോൺ നമ്പറുകൾ URL കൾ എന്നിവ നൽകുന്നു ചില ഓർഗനൈസേഷനുകൾ യഥാർത്ഥത്തിൽ റഫറൻസ് നൽകാൻ ആവശ്യപ്പെടുന്നു പക്ഷേ നിങ്ങൾ ആരുടെയെങ്കിലും പേര് റഫറിയായി ചേർത്തിട്ടുണ്ടെങ്കിൽ ദയവായി അവരോട് മുൻകൂട്ടി പറയുക സാധ്യമെങ്കിൽ അവർക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയയ്ക്കുക അല്ലെങ്കിൽ ജോലിയെക്കുറിച്ച് അവരോട് പറയുക നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് അവരോട് പറയുക കാരണം ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു റഫറിയായി ആരുടെയെങ്കിലും പേര് നൽകുന്നത് കാണാറുണ്ട് മാത്രമല്ല നിങ്ങൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾക്ക് അറിയില്ല നിങ്ങൾ പ്രൊഫസറുടെ പേര് ചേർത്തിട്ടുണ്ടെന്നും നിങ്ങൾ പ്രൊഫസറുമായി വളരെക്കാലമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അറിയുക അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വയം ഒരു പ്രശ്നത്തിലാകുന്നു അതിനാൽ ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് അതിനാലാണ് ആ വ്യക്തിയുമായി സമ്പർക്കം പുലർത്താനും വിവരങ്ങൾ നൽകാനും ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് കാരണം ഏത് സമയത്തും അദ്ദേഹത്തോട് കൂടിയാലോചിക്കുമ്പോൾ അവൻ അവർക്ക് ശരിയായ ഇൻപുട്ട് നൽകും റെസ്യുമെയെക്കുറിച്ചു ഇപ്പോൾ മനസിലാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട സമയമാണിത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു അപ്ലിക്കേഷൻ കത്ത് കാരണം നിങ്ങൾ ഒരു ജോലിക്കായി അപേക്ഷിക്കുകയാണെങ്കിൽ ഡെൽഹിയിൽ നിന്നോ ഒരു വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഈ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യുമെയെലേക്ക് ഒരു അപേക്ഷയും അറ്റാച്ചുചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലരും കരുതുന്ന ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ് ഒരു ആപ്ലിക്കേഷൻ ബിസിനസ്സ് കത്തുകളെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിനാൽ ഇവിടെ ഈ അപ്ലിക്കേഷൻ ഒരു ബിസിനസ്സ് കത്ത് പോലെയാണ് ഈ ആപ്ലിക്കേഷനെ ഒരു കവറിംഗ് ലെറ്റർ എന്നും വിളിക്കാം കാരണം നിങ്ങളുടെ റെസ്യൂമെയിലൂടെ കടന്നുപോകാൻ ആളുകൾക്ക് സമയമില്ലെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആദ്യം നിങ്ങൾ അവർക്ക് ചില മതിപ്പ് നൽകുന്നു നിങ്ങളുടെ കവറിംഗ് കത്തിലൂടെ ചില വിവരങ്ങൾ നിങ്ങളുടെ റെസ്യുമെ വായിക്കാൻ തൊഴിലുടമകളെ ആകർഷിക്കുക എന്നതാണ് കവറിംഗ് കത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരു പേജിൽ കവർ ചെയ്യുന്ന കത്തിൽ നിങ്ങളുടെ ചില കഴിവുകൾ വളരെ തീർത്തും വിവേകത്തോടെയും നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും തൊഴിലുടമ ആകർഷിക്കപ്പെടും തൊഴിലുടമ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ റെസ്യുമെലൂടെ കടന്നുപോകാൻ അവൻ താൽപ്പര്യപ്പെടും ആളുകൾ നിങ്ങളുടെ റെസ്യുമെലൂടെ കടന്നുപോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് അവർക്ക് എങ്ങനെ അറിയാൻ കഴിയും പക്ഷേ നിങ്ങൾ ഈ കവറിംഗ് കത്തെഴുതുമ്പോൾ ഈ പദം തന്നെ ഒരു കവർ ലെറ്റർ നിർദ്ദേശിക്കുന്നതുപോലെ നിർമ്മിക്കുക അതിനാൽ ഇത് ഒരു കവർ ലെറ്ററിൽ ഉപയോഗിക്കുക ഖണ്ഡികകൾ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഇത് നല്ലതാണ് അത് 3 ഖണ്ഡികകളിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ ഇപ്പോൾ കവറിംഗ് ലെറ്ററിൽ എന്തായിരിക്കണം ഏത് കവറിംഗ് കത്തിലും നിങ്ങളുടെ താൽപ്പര്യവും ഒരു വരാനിരിക്കുന്ന തൊഴിലുടമയ്ക്കുള്ള സ്ഥാനത്തിനുള്ള യോഗ്യതയും പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇത് നിങ്ങൾ എഴുതുന്ന ഒരു പതിവ് കത്ത് പോലെയല്ല ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ നിങ്ങൾ തൊഴിലുടമയെ ആകർഷിക്കുന്ന രീതിയിൽ ഇത് ഫ്രെയിം ചെയ്യുക അതിനാൽ ഈ കവറിംഗ് കത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ യോഗ്യത വരാനിരിക്കുന്ന തൊഴിലുടമയ്ക്ക് വിൽക്കുകയാണ് എന്നാൽ നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം ജാഗ്രത പാലിക്കേണ്ടത് തലക്കെട്ട് എഴുതുക എന്നതാണ് നിങ്ങൾ എഴുതുന്ന വ്യക്തിയോട് നിങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന്റെ പേര് വിലാസം എഴുതണം തുടർന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത ആമുഖ ഖണ്ഡിക ഇത് ഒരു വിൽപ്പന കത്ത് പോലെയാണ് ഒരു വിൽപ്പന കത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ രീതി പിന്തുടരുന്നത് അതിനാൽ ഇവിടെയും ആദ്യ ഖണ്ഡികയിൽ താൽപ്പര്യം ഉത്തേജിപ്പിക്കുന്നതിന് നിങ്ങൾ വായനക്കാരന്റെ ശ്രദ്ധ നേടാൻ പോകുന്നു ആദ്യ ഖണ്ഡികയിൽ തുടർന്ന് നിങ്ങൾ പ്രയോഗിച്ച സ്ഥാനത്തിന് നിങ്ങളുടെ അനുയോജ്യതയെ ന്യായീകരിക്കണം നിങ്ങളുടെ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കാൻ കഴിയും പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം കത്തിലുടനീളം ഈ പരസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കാമെന്നതിൽ സ്ഥിരത ഉണ്ടായിരിക്കണം ഉറവിടത്തെക്കുറിച്ചും നിങ്ങൾ എങ്ങനെ പരാമർശിക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ ഖണ്ഡിക ഇതുപോലെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ പബ്ലിക് റിലേഷൻസിനെക്കുറിച്ചുള്ള എന്റെ അറിവും ആശയവിനിമയവും നേതൃത്വ നൈപുണ്യവും എന്നെ മാധ്യമ ബന്ധങ്ങളുടെ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് ശക്തനായ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഭാഷ കാണുന്നു ഭാഷ ആദ്യ ഖണ്ഡികയിൽ തന്നെ നിങ്ങൾ നേതൃത്വപരമായ കഴിവുകളും തെളിയിക്കപ്പെട്ട ആശയവിനിമയ വൈദഗ്ധ്യവും ഉള്ള കഴിവുകളെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ച ഗുണങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിരിക്കുന്നു സ്വാഭാവികമായും തൊഴിലുടമ താൽപ്പര്യം തോന്നുന്നു അതിനാൽ ആദ്യ ഖണ്ഡികയിൽ തന്നെ നിങ്ങൾ വായനക്കാരന്റെ ശ്രദ്ധ നേടാൻ പോകുന്നു തുടർന്ന് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ശൈലി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ ഓർക്കുന്നു ഉദാഹരണത്തിന് ലോകത്തിലെ അതിവേഗം വളരുന്ന പബ്ലിഷിംഗ് ഹസുകളിൽ അംഗമായി നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ആശയവിനിമയത്തിലോ കമ്പ്യൂട്ടറിലോ ഒരു ബിരുദധാരിയ്ക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ പ്രധാന ബഹുമതികളുള്ള ഒരു ബിരുദധാരിയുണ്ടെങ്കിൽ ഒരു സബ് എഡിറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആദ്യ ഖണ്ഡികയിൽ തന്നെ നിങ്ങൾക്ക് ഈ കഴിവുകൾ ഉണ്ടെന്ന് അവരോട് വ്യക്തമാക്കാൻ പോകുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തും ശേഷിക്കുന്ന ഖണ്ഡികകളിൽ നിങ്ങളുടെ കവറിംഗ് കത്ത് 3 ഖണ്ഡികകളായി പരിമിതപ്പെടുത്തണം അതിനാൽ ഖണ്ഡികയുടെ ബോഡി രൂപപ്പെടുത്തുന്ന രണ്ടാമത്തെ ഖണ്ഡിക നിങ്ങൾ ശക്തിപ്പെടുത്താൻ പോകുന്നു നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാൻ പോകുന്നു നിങ്ങൾക്ക് കുറച്ച് തൊഴിൽ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ പരാമർശിക്കുകയും വേണം നിങ്ങൾക്ക് 2 വർഷത്തേക്ക് തൊഴിൽ പരിചയം ഉണ്ടെന്ന് പിന്തുണയ്ക്കാനും കഴിയും അതിനാൽ നിങ്ങളുടെ റെസ്യുമെയിൽ തൊഴിലുടമകളെ റഫർ ചെയ്യുന്നത് നല്ലതാണ് റെസ്യുമെയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ കണക്റ്റിവിറ്റി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു കാരണം ഈ കവർ ലെറ്റർ തൊഴിലുടമകൾക്ക് ഒരു പ്രേരണയാണ് അവ നിങ്ങളുടെ റെസ്യുമെയിലൂടെ കടന്നുപോകാം അതിനാലാണ് കവർ ലെറ്ററിൽ എല്ലാം എഴുതരുതെന്ന് ഞാൻ വീണ്ടും പറയുന്നത് പക്ഷേ ഇത് നിങ്ങളുടെ ബയോഡാറ്റയുമായി ബന്ധിപ്പിക്കുക അതിനാൽ നിങ്ങളുടെ അനുഭവം വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ ബയോഡാറ്റയിലൂടെ കടന്നുപോകാൻ അവൻ താത്പര്യം കാട്ടുന്നു നിങ്ങളുടെ യോഗ്യത തൊഴിലുടമകളോട് പറയരുത് അതിനാൽ നിങ്ങൾ കുറച്ച് ഉദാഹരണം നൽകണം നിങ്ങൾക്ക് കുറച്ച് അനുഭവമുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഉപഭോക്തൃ പ്രതിനിധി അല്ലെങ്കിൽ ഒരു ബാങ്കിംഗ് പ്രതിനിധി എന്ന നിലയിൽ പറയാൻ കഴിയും എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കാനാകും ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ ബാങ്കിലെ ഒരു ബാങ്കിംഗ് പ്രതിനിധിയായി ഉപയോക്താക്കൾക്ക് ഉൽപ്പന്നത്തിന്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞാൻ ഗുണനിലവാരമുള്ള സേവനം നൽകി ഞാൻ ഒരു ദിവസേനയുള്ള രൂപ കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഇവിടെ നിങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് പക്ഷേ അതിന് ഒരു പ്രത്യേക സത്യം ഉണ്ടായിരിക്കണം ബാങ്കുകൾ എടിഎം മെഷീൻ എന്നിവ തുലനം ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾ അപേക്ഷിച്ച സ്ഥാനത്തിനായുള്ള നിങ്ങളുടെ അവകാശവാദങ്ങളെ ന്യായീകരിക്കുകയാണ് ഭാഷയുടെ ഉപയോഗം വരുന്നു ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ സജീവമായി ഭാഷ ഉപയോഗിക്കണം നിങ്ങളുടെ അനുഭവം പ്രവർത്തനങ്ങൾ എന്നിവ നിങ്ങൾ വിവരിക്കുകയാണെങ്കിലും നിങ്ങൾ മുമ്പ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ദയവായി ഭൂതകാലത്തെ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചില നേട്ടങ്ങൾ നിലവിൽ അത് ഉപയോഗിക്കുന്നു ഭൂതകാലവും വർത്തമാനവും തമ്മിൽ ശരിയായ സന്തുലിതാവസ്ഥയില്ലെന്ന് ചിലപ്പോഴൊക്കെ കണ്ടു തീർച്ചയായും ഭൂതകാലവും വർത്തമാനവും തമ്മിൽ സന്തുലിതാവസ്ഥയില്ലെങ്കിൽ അത് ഇരുണ്ടതായിരിക്കും അതിനാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ പരാമർശിക്കേണ്ടതുണ്ട് ആനന്ദകരവും മനോഹരവുമായ ഒരു ഭാവി ലഭിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും സന്തുലിതമാക്കുന്നുവെന്ന് നിങ്ങൾ കാണണം നിങ്ങളുടെ ഓർഗനൈസേഷനുകളിൽ ബാധകമാകുന്ന എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് തുകകളോ കണക്കുകളോ നിർമ്മിക്കുമ്പോഴോ വിവരിക്കുമ്പോഴോ വ്യക്തമായിരിക്കുക എന്നിട്ട് നിങ്ങൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരു പൊതുവായ പ്രസ്താവന നൽകില്ല ഉദാഹരണത്തിന് ഞാൻ ഉപഭോക്താക്കളെ ട്രാക്കുചെയ്യാൻ ശ്രമിച്ചു ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന വളരെ ദുർബലമായ ഒന്നാണ് പിസ്സ ഹട്ടിലേക്കു ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഞാൻ ഒരു പ്രോഗ്രാം ആരംഭിച്ചു അതിന്റെ ഫലമായി 10 ശതമാനം വർദ്ധനവ് ഉണ്ടായി ഇപ്പോൾ ഈ രീതിയിൽ പോകുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ക്ലെയിമുകൾ കൂടുതൽ വ്യക്തമാക്കുന്നു നിങ്ങൾ ഇത് മികച്ചരീതിയിൽ ചെയ്യുന്നു ദുർബലമായ പദസമുച്ചയങ്ങളേക്കാൾ ശക്തമായ വാക്കുകൾ പ്രവർത്തന പദങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ് നിങ്ങൾ ലിംഗ പക്ഷപാത ഭാഷ ഉപയോഗിക്കാൻ പോകുന്നില്ലെന്ന് ദയവായി കാണുക ചെയർമാനുപകരം ചെയർപേഴ്സൺ പോലുള്ള ഭാഷ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനാൽ നിങ്ങൾ സാങ്കേതിക പദപ്രയോഗങ്ങളിൽ നിന്ന് സ്വതന്ത്രരായിരിക്കണം റഫർ സമയം 2938 അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിലും നല്ലതായി കണക്കാക്കപ്പെടുന്ന ഒരു ഭാഷ സാങ്കേതിക പദപ്രയോഗങ്ങളിൽ നിന്ന് മുക്തമാണ് റഫർ സമയം 2945 റിപ്പോർട്ടുകളുടെ ശൈലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ അനാവശ്യമായ പദപ്രയോഗങ്ങൾ ഇതെല്ലാം ചെയ്തുകഴിഞ്ഞാൽ ദയവായി നിങ്ങളുടെ കത്ത് ഓർഗനൈസുചെയ്യുക നിങ്ങൾ രണ്ടുതവണ പരിശോധിച്ചുവെന്ന് ഉറപ്പാക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അതിനാൽ പിശകുകളൊന്നുമില്ല ബോഡി ഖണ്ഡികകൾ സംഘടിപ്പിക്കുകയും ഏറ്റവും ശക്തവും പ്രസക്തവുമായ യോഗ്യതകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക തുടർന്ന് ഒന്നോ രണ്ടോ ശക്തമായ യോഗ്യതകൾ ഉൾപ്പെടുത്തുക എന്നാൽ നിങ്ങളുടെ കവറിംഗ് കത്ത് ഒരു പേജിൽ കൂടുതലല്ലെന്ന് കാണുക പ്രത്യേകിച്ച് തൊഴിലുടമകൾക്ക് വായിക്കുന്നത് എളുപ്പമാക്കുക കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരു റെസ്യുമെയിൽ വിശ്വസിക്കുന്നു അതിനാൽ ഇത് സ്കാൻ ചെയ്യാൻ അനുവദിക്കുക ഓരോ ഖണ്ഡികയും ഒരു വിഷയം വാക്യം നിങ്ങൾ ഉപസംഹരിക്കുമ്പോൾ ആരംഭിക്കുക അതിനാൽ സമാപന വരികൾ വളരെ ദൃമായിരിക്കണം സമാപന വരിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അവസരം സൃഷ്ടിക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പറയാൻ കഴിയും ഇവയും മറ്റ് യോഗ്യതകളും നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള അവസരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്വയം ഒരു അവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ആരംഭിക്കുകയോ ചെയ്യുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെടുക എന്നാൽ ഈ നമ്പർ പ്രതികരിക്കുകയും വ്യക്തിപരമായ അഭിമുഖം ആവശ്യപ്പെടുകയും അവസാനിപ്പിക്കുകയും അഭിമുഖം നടത്തുന്നയാളെക്കുറിച്ച് വ്യക്തമായി പറയുകയും വേണം അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ബന്ധപ്പെടുകയും ബിസിനസ്സ് കത്തുകളുടെയും മെയിലിന്റെയും കാര്യത്തിൽ ഞങ്ങൾ ചെയ്തതു പോലെ നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് നിങ്ങളുടെ കത്ത് നിങ്ങളുടെ റെസ്യുമെയ്ക്കൊപ്പം ദയവായി ഒരു ശരിയായ എൻവലപ്പ് തിരഞ്ഞെടുക്കുക ഒരുപക്ഷേ അവർ അത് മെയിലുകളിലൂടെ ചോദിക്കുന്നില്ല ഇപ്പോൾ അതിനായി നിങ്ങൾ ലഭ്യമായ നിർദ്ദേശങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട് നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു അഭിമുഖ കോളിനായി തയ്യാറാകേണ്ട സമയമാണ് എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ അന്തിമ സ്പർശം നൽകാൻ പോകുന്നു ജോലി സ്ഥാനത്തേക്ക് അപേക്ഷിക്കുമ്പോൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ചില പ്രധാന പോയിന്റുകൾ ഉണ്ടായിരുന്നു കത്ത് എഴുതുമ്പോൾ കമ്പനി മൂല്യങ്ങൾക്ക് ബാധകമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഓർഗനൈസേഷനിൽ നിങ്ങളുടെ റെസ്യുമെയിലെ വിവരങ്ങൾ വിശദമായി വിവരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാഫിക്കൽ അല്ലെങ്കിൽ വ്യാകരണ പിശകുകൾ തിരുത്തുന്നതിനായി നിങ്ങളുടെ കത്ത് ശ്രദ്ധാപൂർവ്വം പ്രൂഫ് റീഡ് ചെയ്യണം നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഫലപ്രദമായ ഒരു റെസ്യുമെ തയ്യാറാക്കാൻ ഇപ്പോൾ സമയമായി ഇപ്പോൾ ഇവിടെ ഒരു റെസ്യുമെയുടെ ഒരു ഉദാഹരണം കാണാം അത് യഥാർത്ഥത്തിൽ ജോലിക്ക് ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി തയ്യാറാക്കിയതാണ് പ്രത്യേകിച്ചും ഒരു എൻട്രി ലെവലിനുള്ള ഒരു റെസ്യുമെ അനുഭവ ലെവൽ ആളുകൾക്ക് ഇവ വ്യത്യസ്തമായിരിക്കും കാരണം അവരുടെ റെസ്യുമെ ദൈർഘ്യമേറിയതായിരിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബയോഡാറ്റയുടെ ഒരു സാമ്പിൾ കാണാൻ കഴിയും അവിടെ ഈ നിസ്ചേ ബുഡിരാജ യഥാർത്ഥത്തിൽ ഈ റെസ്യൂമെ എഴുതിയതു ഈ റെസ്യൂമെ ഡ്രാഫ്റ്റ് ചെയ്ത ആൺകുട്ടിയുടെ പേരാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനം നൽകിയ ലക്ഷ്യം അല്ലെങ്കിൽ ഇവിടെ മുന്നേറ്റത്തിനും യാത്രയ്ക്കും അവസരമുള്ള മാർക്കറ്റിംഗ് അതുവഴി അർത്ഥം തനിക്കും യാത്ര ചെയ്യാമെന്ന സൂചന അവൻ നൽകുന്നു അവൻ ഓഫീസ് ജോലിയിൽ ഒതുങ്ങുന്നില്ല അതിനാൽ സ്വാഭാവികമായും അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ഇടം നൽകുന്നു തുടർന്ന് അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം തന്റെ അക്കാദമിക് പ്രൊഫൈലിനെക്കുറിച്ച് പരാമർശിക്കുന്നു ഇവയെല്ലാം ആക്ഷൻ ക്രിയകളുടെ ഉപയോഗം തുടർന്ന് ഭൂതകാലത്തിന്റെ ഉപയോഗം 100 ശതമാനം പൂർത്തിയാക്കിയ ബിടെക് എന്നിവ നിങ്ങൾ കണ്ടെത്തും

ചില കോൺഫറൻസുകളിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു അതിനാൽ ആധാർ കാർഡ് വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ച കാര്യം അദ്ദേഹം പരാമർശിക്കുന്നു ദില്ലിയിലെ ഐഐടിയിലെ ഡാറ്റ ഒന്നാം സമ്മാനം ലഭിച്ചു ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുനിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഇവിടെയുണ്ട് തുടർന്ന് ഒരു പോജിയിൽ ഇലക്ട്രോ വാൽട്ടിനെക്കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിനുള്ള തന്റെ സംരംഭത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു ഒരു സാങ്കേതിക വാചകം ബിറ്റ്സ് പിലാനി അതിനാൽ അതുവഴി അർത്ഥമാക്കുന്നത് ഈ മാന്യന് എല്ലാ യോഗ്യതകളും ഉണ്ട് അത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുനിൽക്കാൻ സഹായിക്കുന്നു തീർച്ചയായും മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നവരുടെ മനസ്സിൽ ആകർഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കായി ഒരു അവസരം സൃഷ്ടിക്കാനോ പോകുന്നു പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു ഇവിടെ അദ്ദേഹം ഒരു റഫറിമാരെയും പരാമർശിച്ചിട്ടില്ല കാരണം ഫോർമാറ്റ് അനുസരിച്ച് ഒരു സ്കോപ്പും ഇല്ലായിരുന്നു പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അവ നൽകുന്നതിന് അദ്ദേഹത്തിന് റഫറൻസുകൾ എഴുതാമായിരുന്നു ചോദിക്കുകയും തുടർന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്യുന്നു അവിടെ അദ്ദേഹം കൃത്യമായ ജനനത്തീയതി പിതാവിന്റെ പേരും അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷകളും പരാമർശിക്കുന്നു തുടർന്ന് ദേശീയത തുടർന്ന് ഹോബികളെക്കുറിച്ചും സംസാരിക്കുന്നു ഈ സാമ്പിൾ റെസ്യുമെയിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തൊഴിലുടമകളുടെ വീക്ഷണകോണിൽ നിന്ന് എൻട്രി ലെവലിൽ ജോലി ലഭിക്കുന്നതിന് മാത്രമല്ല ജോലിയിലുള്ളവർക്കും കൂടാതെ കുറച്ച് റെസ്യുമെയിൽ കുറയ്ക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് മികവ് പുലർത്തുക അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്ഥാനത്തിനും വർദ്ധിച്ച സ്ഥാനത്തിനും അപേക്ഷിച്ച് അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒപ്പം റെസ്യുമെ ഉണ്ടാകുക നിങ്ങൾ അത് അയയ്ക്കാൻ പോകുന്നു അഭിമുഖത്തിനായി കാത്തിരിക്കേണ്ട സമയമായി അഭിമുഖം കോൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അടുത്ത പ്രഭാഷണത്തിൽ അഭിമുഖങ്ങളെ എങ്ങനെ നേരിടണം എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും അതുവരെ ദയവായി കോളിനായി കാത്തിരിക്കുക വളരെയധികം നന്ദി ഒരു നല്ല ദിനം ആശംസിക്കുന്നു